എൻപിടിഇൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സായ ബയോറിയാക്ടറുകളെക്കുറിച്ചുള്ള ഈ സംഗ്രഹ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ സംഗ്രഹ പ്രഭാഷണം ഈ കോഴ്സിൽ നമ്മൾ നോക്കിയ കാര്യങ്ങളുടെ ഒരു അവലോകനം നൽകും മാത്രമല്ല ഇത് ഇവിടെയുള്ള കാര്യങ്ങളുടെ ധാരണയും വിലമതിപ്പും മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ആദ്യം ആരംഭിച്ചത് ഒരു ആമുഖ മൊഡ്യൂളിലാണ് പൂർണ്ണമായും അഞ്ച് മൊഡ്യൂളുകൾ ഉണ്ടായിരുന്നു ആദ്യത്തേത് ആമുഖ മൊഡ്യൂളായിരുന്നു രണ്ടാമത്തേത് ഒരു ബയോ റിയാക്ടറിൽ നിന്നുള്ള രണ്ട് പ്രധാന ഫലങ്ങൾ നോക്കി കോശങ്ങൾ സ്വയം അല്ലെങ്കിൽ ബയോമാസ് എന്നറിയപ്പെടുന്നവ അല്ലെങ്കിൽ കോശങ്ങൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ എൻസൈമാറ്റിക് രാസപ്രവർത്തനങ്ങളിലൂടെ മൂന്നാമത്തെ മൊഡ്യൂൾ ബയോ റിയാക്ടറിന്റെ പൊതുവായ ചില ഓപ്പറേറ്റിംഗ് മോഡുകളുടെ വിശകലനവും മറ്റ് മോഡുകളേക്കാൾ വിവിധ മോഡുകളിൽ അന്തർലീനമായ ഗുണങ്ങളും പരിശോധിച്ചു നാലാമത്തെ മൊഡ്യൂൾ ബയോറിയാക്ടർ എൻവയോൺമെന്റ് മാനദണ്ഡങ്ങൾ പരിശോധിച്ചു ബയോറിയാക്ടറിനുള്ളിലെ യഥാർത്ഥ വ്യവസായ ശാലകൾ ബയോറിയാക്റ്റർ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധാരണ അളക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വേരിയബിളുകൾ ചില ഉപരിതല തലത്തിലുള്ള ധാരണകളുണ്ട് പക്ഷേ ഒരു പരിധിവരെ അത് മനസ്സിലാകുന്നില്ല കൂടാതെ ബയോറിയാക്ടർ എൻവയോൺമെന്റ് മാനദണ്ഡങ്ങൾ ഓപ്പറേഷൻ ലെവൽ വരെ പരിമിതപ്പെടുത്തി അവസാന മൊഡ്യൂളിൽ മൊഡ്യൂൾ അഞ്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില മാർഗ്ഗങ്ങളിലൂടെ കോശങ്ങളെ തന്നെ നോക്കി കോശങ്ങൾകുള്ളിൽ എന്താണ് നടക്കുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ മികച്ച ഉൽപാദനത്തിന് അവയെ കൈകാര്യം ചെയ്യാമെന്ന് അറിഞ്ഞു അതാണ് ഈ കോഴ്സിനുള്ള മൊത്തത്തിലുള്ള പദ്ധതി ഈ വിവിധ മൊഡ്യൂളുകളിൽ നിന്നുള്ള ചില വിശദാംശങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം ആമുഖ മൊഡ്യൂൾ നമ്മൾ ആദ്യം കണ്ടത് കാൻസർ എന്താണെന്നും കാൻസറിനെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ മോണോക്ലോണൽ ആന്റിബോഡികൾ ബയോറിയാക്ടറുകളിലൂടെയാണ് മാബുകൾ നിർമ്മിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ബയോപ്രൊസെസ്സിലൂടെയാണ് അത് സാധ്യമാകുന്നത് ബയോറിയാക്ടർ ആണ് അതിൻറെ പ്രധാന ഭാഗം അതുപോലെ ഇതര ദ്രാവക ഇന്ധനങ്ങളായ ബയോഇഥനോൾ ബയോഡീസൽ അവയിൽ ബയോറിയാക്ടറുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു പ്രമേഹത്തെ ചികിത്സിക്കുന്നതിനുള്ള മരുന്നായ ഇൻസുലിൻ ബയോറിയാക്ടറുകൾ വഴിയാണ് നിർമ്മിക്കുന്നത് തൈര് പോലും ബയോറിയാക്ടറുകൾ വഴിയാണ് നിർമ്മിക്കുന്നത് വീട്ടിലെ ഒരു ലളിതമായ ബയോ റിയാക്ടർ പിന്നെ നമ്മൾ ബയോറിയാക്റ്റർ എന്ന ബയോ പ്രോസസ് നോക്കി ഉപയോഗിക്കുന്ന സാധാരണ ബയോറിയാക്ടർ തരങ്ങൾ ഇളക്കിവിടുന്ന ടാങ്ക് ബയോറിയാക്ടർ എയർ ലിഫ്റ്റ് ബയോറിയാക്ടർ പായ്ക്ക്ഡ് ബെഡ് ബയോ റിയാക്ടർ സോളിഡ്സ്റ്റേറ്റ് ബയോറിയാക്ടർ ദ്രാവകം ഇല്ലാത്തത് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പോലുള്ള ഒറ്റ തവണ ഉപയോഗിയ്ക്കുന്ന ബയോറിയാക്ടറുകളും വ്യവസായത്തിലെ ചില പ്രവർത്തന കാരണങ്ങളാൽ മികച്ച തരംഗ ബയോറിയാക്ടറുകളും പ്രകാശസംശ്ലേഷണ ജീവികളെ വളർത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഫോട്ടോ ബയോറിയാക്ടർ ഇതെല്ലാം നമ്മൾ കണ്ടു മറ്റ് പലതരം ബയോറിയാക്ടറുകളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുപക്ഷേ ഇവയാണ് സാധാരണ ഉപയോഗികുന്നത് ചില ഓപ്പറേഷൻ മോഡുകളിൽ ബയോറിയാക്ടർ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു ബാച്ച് റിയാക്ടറിൽ നമ്മൾ എല്ലാം നിക്ഷേപിച്ചിട്ട് പ്രക്രിയ നടത്തും തുടർച്ചയായ ഇൻപുട്ടും തുടർച്ചയായ ഔട്ട്പുട്ടും ഉള്ള നിരന്തരമായ പ്രവർത്തനം സ്ഥിരമായ പ്രവർത്തനത്തിൽ നമ്മൾക്ക് സാധാരണയായി ആവശ്യമാണ് അത് മിക്കപ്പോഴും സംഭവിക്കുന്നു പ്രാരംഭപാത അസ്ഥിരമായ അവസ്ഥയിലായിരിക്കാം കൂടാതെ സ്റ്റാർട്ടപ്പും ഷട്ട്ഡൌൺ പാതകളും സ്ഥിരതയില്ലാത്ത അവസ്ഥയിലായിരിക്കാം അതിൽ നമ്മൾക്ക് സാധാരണയായി താൽപ്പര്യമില്ല ഒരു ബാച്ചിനും തുടർച്ചയായ പ്രവർത്തനത്തിനുമിടയിൽ ഉള്ള ഫെഡ് ബാച്ച് പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ഇടവിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ രണ്ടും ആകാം വൃത്തിയുള്ള ഒരു അവസ്ഥയുടെ ആവശ്യകത നമ്മൾ പരിശോധിച്ചു ആദ്യം നമ്മൾ ബയോറിയാക്ടറിലെ എല്ലാ സൂക്ഷ്മാണുക്കളെയും കൊല്ലുന്നു തുടർന്ന് താൽപ്പര്യമുള്ള സൂക്ഷ്മാണുക്കൾ അവതരിപ്പിക്കുന്നു അപ്പോൾ അവക്ക് നന്നായി വളരാനും നമ്മൾക്ക് താൽപ്പര്യമുള്ള ഉൽപ്പന്നം ഉൽപാദിപ്പിക്കാനും കഴിയും ഉയർന്ന താപനില രാസവസ്തുക്കൾ വികിരണം എന്നിവയാണ് ശുദ്ധമായ അവസ്ഥ നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഉയർന്ന താപനില സ്റ്റേറിലൈസേഷനോ താപ സ്റ്റേറിലൈസേഷനോ അനുസരിച്ച് ചില കൈനേറ്റിക്സുകൾ നാം പരിശോധിച്ചു ദശാംശ റിഡക്ഷൻ സമയം എന്ന ആശയം അതിന്റെ അടിസ്ഥാനമാണ് ചുരുക്കത്തിൽ ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല മെറ്റീരിയൽ ബാലൻസ് അടിസ്ഥാനകാര്യങ്ങളും മറ്റും നമ്മൾ പരിശോധിച്ചു അതെ കോശ ഗാഢതയ്ക്ക് എടുക്കുന്ന സമയമാണിത് തുടക്കത്തിൽ ഉള്ള ജീവ കോശ സാന്ദ്രത 𝑥𝑣0 മുതൽ അവസാനത്തിലുള്ള ജീവ കോശ സാന്ദ്രത 𝑥𝑣 എന്നത് താഴെ പറയും പ്രകാരമാണ് ഒരു ദശാംശ റിഡക്ഷൻ സമയം എന്ന ആശയം നമ്മൾ കണ്ടു ഇത് ഒരു നിശ്ചിത താപനിലയിൽ കോശ ഗാഢത പത്തിരട്ടി കുറയ്ക്കുന്നതിനുള്ള സമയമാണ് രൂപകൽപ്പനക്കായി ഇവ ഉപയോഗിക്കാം അവിടെയാണ് നമ്മൾ പ്രാക്ടീസ് പ്രശ്നവും അതിനുള്ള പരിഹാരവും ഉപയോഗിച്ച് മൊഡ്യൂൾ ഒന്ന് പൂർത്തിയാക്കിയത് മൊഡ്യൂൾ രണ്ട് ഒരു ബയോറിയാക്റ്ററിൽ നിന്നോ ബയോപ്രോസസിൽ നിന്നോ ഉള്ള രണ്ട് പ്രധാന ഫലങ്ങൾ പരിശോധിച്ചു അവ കോശങ്ങളും ബയോപ്രൊഡക്ടുകളും ആണ് കൂടാതെ കോശങ്ങൾ തന്നെ പ്രധാനപ്പെട്ട ബയോപ്രൊഡക്ടുകളാകാനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു അതല്ലാതെ കോശത്തിൽ നിന്ന് പുറത്തുവരുന്ന മറ്റു പല തന്മാത്രകളും ഉണ്ട് കോശങ്ങൾ തന്നെ ജൈവ ഉൽപ്പന്നങ്ങളാകുമ്പോൾ വളർച്ചയ്ക്കായുള്ള മോഡലുകൾ ആണ് അല്ലെങ്കിൽ ഓരോ കോശവും ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ കൂടുതൽ കോശങ്ങൾ ഉള്ളത് എന്നിവ അർത്ഥമാക്കുന്നു അതിനാൽ ഏത് സാഹചര്യത്തിലും വളർച്ച നമ്മൾക്ക് പ്രധാനമാണ് ഇതാണ് ഏറ്റവും ലളിതമായ മോഡൽ 𝑟𝑥 𝜇 𝑥 ഒന്നാമത്തെ ഓർഡർ പ്രാതിനിധ്യം 𝜇 ഒരു സ്ഥിരമായിരിക്കാം അല്ലെങ്കിൽ ആകില്ല ചില സാഹചര്യങ്ങളിൽ ഇത് ഒരു സ്ഥിരമാണ് മറ്റ് സാഹചര്യങ്ങളിൽ ഇത് ഒരു സ്ഥിരമല്ല ലോജിസ്റ്റിക് സമവാക്യം മറ്റൊരു മോഡലിലേക്ക് നമ്മൾ നോക്കി തുടർന്ന് കൂടുതൽ സങ്കീർണ്ണമായ മോഡലുകൾ ലഭ്യമാണെന്ന് നമ്മൾ പറഞ്ഞു ഈ വിപുലമായ ലെവൽ പഠനത്തിൽ താൽപ്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി പിന്നെ നമ്മൾ പറഞ്ഞത് സബ്സ്ട്രേറ്റുകൾ ഉൽപ്പന്നങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്നതാണു ചില പ്രധാന ആശയങ്ങൾ നമ്മൾ പരിശോധിച്ചു മോണോഡ് മോഡൽ നൽകുന്ന സബ്സ്ട്രേറ്റ് ഗാഢതയിൽ നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിന്റെ ആശ്രയം പിന്നെ വേറെ മോഡലുകളായ മോസർ മോഡൽ ആൻഡ്രൂസ് നോക്ക് മോഡൽ എന്നിവയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരേസമയം രണ്ട് സബ്സ്ട്രേറ്റുകളുടെ പരിമിതി നൽകുന്ന മോഡൽ അതുമല്ലെങ്കിൽ ഉൽപ്പന്ന തടസ്സം നോക്കുന്ന ജെറുസാലിംസ്കി നെറോനോവ മോഡലുകൾ ബയോറിയാക്ടറിലെ ഉൽപന്ന രൂപീകരണ ഭൌതികതയ്ക്കായുള്ള ഒരു മാതൃക ഞങ്ങൾ നോക്കി ല്യൂഡെക്കിംഗ് പൈററ്റ് മോഡൽ ഏതൊക്കെ യീൽഡ് കോയഫിഷ്യന്റ് എവിടെയാണെന്നും അവ എങ്ങനെ പരിവർത്തനം ചെയ്യാമെന്നും നമ്മൾ പരിശോധിച്ചു ഒരു നിരക്ക് മറ്റൊരു നിരക്കിലേക്ക് ഇന്റർ കൺവേർട്ട് റേറ്റുകൾ തുടങ്ങിയവയും അറ്റകുറ്റപ്പണി എന്ന ആശയം കോശ ഗുണിതത്തിലേക്കും ഉപാപചയം ഒഴുക്ക് ജനിതക പ്രക്രിയകൾ തുടങ്ങിയവ കോശ പരിപാലനത്തിലേക്കും പോകേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ അത് കണക്കിലെടുക്കുന്നു പ്രത്യേകിച്ചും സബ്സ്ട്രെടിന്റെ ഗാഢത കുറയുമ്പോൾ അവ കണക്കിലെടുക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു പിന്നെ നമ്മൾ എൻസൈം കണ്ടു നമ്മൾ എൻസൈം ചലനാത്മകത മൈക്കിളിസ് മെന്റൻ എൻസൈം ചലനാത്മകം എന്നിവ നോക്കി നിങ്ങൾക്ക് ഇത് വിശദമായി പരിശോധിക്കാം അവസാന ഡെറിവേഷൻ ഇവിടെ മോണോഡ് സമവാക്യ രൂപത്തിന്റെ അതേ പോലെ ആവും എന്നാൽ തീർച്ചയായും ഇത് തികച്ചും വ്യത്യസ്തമാണ് ഇവ മെക്കാനിസത്തിലെ ഓരോ ഘട്ടങ്ങളുടെ നിരക്ക് സ്ഥിരതകളുമായി പൊരുത്തപ്പെടുന്നു എൻസൈം അധികം സബ്സ്ട്രേറ്റ് നിങ്ങൾക്ക് എൻസൈം സബ്സ്റ്റേറ്റ് കോംപ്ലക്സ് നൽകുന്നു ഇത് നിങ്ങൾക്ക് എൻസൈ൦ തിരികെ നൽകുകയും ഇഷ്ടമുള്ള ഉൽപ്പന്നം നൽകുകയും ചെയ്യുന്നു അതാണ് മുകളിലെ ഗ്രാഫിലെ സൂചകം ലൈൻവിവർ ബർക് പ്ലോട്ട് ആണ് അതിൻറെ അടിസ്ഥാനം കോംപിറ്റിറ്റിവ് ഇൻഹിബിഷനിലൂടെ v m k m എന്നീ മോഡൽ മാനദണ്ഡങ്ങൾ കണ്ടെത്താനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തി കോംപിറ്റടിവ് ഇൻഹിബിഷനിൽ നിഷേധ വസ്തു എൻസൈമിനെ ബന്ധിപ്പിക്കുന്നു അതുവഴി രാസപ്രവർത്തനത്തിൻറെ തോത് തടയുന്നു കോംപിറ്റടിവ് ഇൻഹിബിഷനിൽ നിഷേധ വസ്തു എൻസൈമിനോടും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനോടും ബന്ധിപ്പിക്കുകയും രാസപ്രവർത്തനത്തെ തടയുകയും ചെയ്യുന്നു കോംപിറ്റടിവ് ഇൻഹിബിഷനിൽ ഇത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായി മാത്രം ബന്ധിപ്പിക്കുകയും തടയുകയും ചെയ്യുന്നു ഈ മൂന്ന് സന്ദർഭങ്ങളിൽ v ms ഉം k ms ഉം മാറുന്നു കോമ്പിറ്റിറ്റീവ് vm മാറും നോൺ കോമ്പറ്റിറ്റിവ് km ഉം മാറും അൺ കോമ്പറ്റിറ്റിവ് v m k m എന്നിവയായും മാറുന്നു പിന്നെ നമ്മൾ എൻസൈം ഇമ്മൊബിലൈസേഷൻ കണ്ടു അതിലൂടെ നമുക്ക് എൻസൈമിന് കേടുപാടുകൾ കുറയ്ക്കാൻ കഴിയും പക്ഷേ അത് ചിലവുള്ളതാണ് കോശങ്ങൾ അസ്ഥിരമാക്കാമെന്നും നമ്മൾ പറഞ്ഞു വ്യാവസായികമായി ഇവ ഒരു അസ്ഥിരീകരണ മോഡിൽ ഉപയോഗിച്ചു അതാണ് മൊഡ്യൂൾ രണ്ടിൽ നമ്മൾ പ്രധാനമായും കണ്ടത് കൂടാതെ കുറച്ച് പ്രശ്നങ്ങളും പരിഹരിച്ചു പ്രശ്ന പരിഹാരങ്ങൾ ഉപയോഗപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻറെ തത്വങ്ങളും ഉപയോഗപ്രദമാകുമായിരുന്നു എന്നു കരുതുന്നു തുടർന്ന് മൊഡ്യൂൾ മൂന്നിൽ സാധാരണ ബയോറിയാക്ടർ ഓപ്പറേറ്റിംഗ് മോഡുകളുടെ വിശകലനം നമ്മൾ പരിശോധിച്ചു ബാച്ച് മോഡ് തുടർച്ചയായ മോഡ് ഫെഡ് ബാച്ച് മോഡ് ഇവ രണ്ടും നമ്മൾ വളരെ വിശദമായി നോക്കി ഫെഡ് ബാച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെ ഉള്ളൂ കാരണം ഇത് സങ്കീർണ്ണമാണ് അതിനെ സമീപിക്കാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അതിനാൽ ബാച്ച് മോഡിൽ നമ്മൾ ബാലൻസുകൾ ചെയ്തു ഒരു ബാച്ചിന്റെ സമയത്തിൽ ഒരു നിശ്ചിത കോശ ഗാഢതയിലെത്താൻ നമ്മൾക്ക് സമവാക്യങ്ങൾ ലഭിച്ചു ഒരു നിശ്ചിത ആദ്യ ഗാഢതയിൽ നിന്ന് ആരംഭിക്കുന്നു അതാണ് 𝑥0 എന്നത് പ്രാരംഭ സെൽ ഗാഢതയാണ് 𝑡0 എടുത്ത സമയമാണ് ഇവയുടെ ആകെത്തുക ഒരു ബാച്ച് സമയമാണ് അത് വ്യക്തമാക്കുന്നതിനായി നമ്മൾ ഒരു പ്രശ്നം ചെയ്തു നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിൽ സബ്സ്ട്രെടിന്റെ ഗാഢത പ്രഭാവം നമ്മൾ കൊണ്ടുവന്നു കാര്യങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് കണ്ടു അത് കൊണ്ടുവരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇത് പ്രസക്തമാകാം പക്ഷേ തുടർച്ചയായ ബയോറിയാക്റ്റർ സാഹചര്യത്തിന് ഇത് കൂടുതൽ പ്രധാനമാണ് അതിനാൽ നമ്മൾ പോയി തുടർച്ചയായ ബയോറിയാക്ടറുകൾ വിശകലനം ചെയ്തപ്പോൾ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ നല്ല ഉൾക്കാഴ്ചകൾ ലഭിച്ചു നമ്മൾ അതിനെ സ്ഥിരമായ അവസ്ഥ എന്നു വിളിച്ചു സ്ഥിരമായ പ്രവർത്തനത്തിനുള്ള വ്യവസ്ഥകൾ നമ്മൾ അറിഞ്ഞു വാഷ ഔട്ട് സംഭവിക്കുന്നതിനുമുമ്പ് നമ്മൾ നിർണായക ഡില്യൂഷൻ റേറ്റ് അറിഞ്ഞു ഒരു കീമോസ്റ്റാറ്റിൽ കോശ ഉൽപാദനക്ഷമതയ്ക്കായി ഒരു സമവാക്യവും അറിഞ്ഞു അതിനെ ബാച്ച് ബയോറിയാക്റ്റർ ഉൽപാദനക്ഷമതയുമായി താരതമ്യം ചെയ്തു ഈ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് സ്ഥിരമായ പ്രവർത്തനത്തിലെ നേർപ്പിക്കൽ നിരക്കിന് തുല്യമാണെന്ന് പറഞ്ഞു അതിനാൽ ഒരു പ്രവർത്തന പാരാമീറ്റർ അത്തരമൊരു ഫ്ലോറേറ്റ് നേർപ്പിക്കൽ നിരക്ക് സമം ഫ്ലോ റേറ്റ് ഹരിക്കണം വ്യാപ്തം ആണ് അതിനാൽ വളർച്ചാ നിരക്ക് ഒരു ബയോളജിക്കൽ പാരാമീറ്റർ നിയന്ത്രിക്കാൻ ഫ്ലോ റേറ്റ് ഉപയോഗിക്കാം അതാണ് ഇവിടെ പ്രാധാന്യം എന്നിട്ട് നമ്മൾ ഒരു നിർണായക നേർപ്പിക്കൽ നിരക്ക് പറഞ്ഞു അതിനപ്പുറം കോശ ഉൽപാദനം ഇല്ല ഒരു കീമോസ്റ്റാറ്റ് അന്തർലീനമായി മൂന്നോ നാലോ ഇരട്ടി ഉൽപാദനക്ഷമതയുള്ളതാണെന്ന് പറഞ്ഞു പ്രവർത്തിപ്പിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണെങ്കിലും ഒരു കീമോസ്റ്റാറ്റ് പ്രവർത്തിക്കുന്നതു വളരെയധികം തീവ്രമായിട്ടാണ് പിന്നെ നമ്മൾ വിശകലന മാർഗ്ഗങ്ങൾ നോക്കി കുറച്ചു പ്രശ്നങ്ങളും പരിഹരിച്ചു ഇൻപുട്ട് മാത്രമുള്ള ഒരു പ്രവർത്തനത്തിന്റെ സംക്ഷിപ്തമായ വിശകലന രീതി അല്ലെങ്കിൽ വിശകലനം നമ്മൾ പരിശോധിച്ചു വളരെ ചുരുക്കത്തിൽ ഫ്ലോ റേറ്റിന്റെ വ്യതിയാനം സമയത്തിനൊപ്പം ഇൻപുട്ട് ഫ്ലോ റേറ്റ് സമയത്തിനൊപ്പം ഇൻപുട്ട് കോശ ഗാഢതയുടെ വ്യതിയാനം എന്നിവ അറിയാമെങ്കിൽ ഉചിതമായ വശങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ഈ സമവാക്യം ഉപയോഗിക്കാം അതാണ് നമ്മൾ പറഞ്ഞത് അത് മൊഡ്യൂൾ മൂന്ന് ആയിരുന്നു നാലാം മൊഡ്യൂളിൽ ബയോറിയാക്റ്റർ പ്രകടനത്തെ ബാധിക്കുന്ന കൾടിവേഷൻ മാനദണ്ഡങ്ങൾ നമ്മൾ പരിശോധിച്ചു താപനില പിഎച്ച് മീഡിയം കോമ്പോസിഷൻ വായുസഞ്ചാരവും അജിറ്റേഷൻ ഓക്സിജന്റെ അളവ് അലിഞ്ഞു ചേർന്നത് എന്നിവയുമായിരുന്നു കൾടിവേഷൻ മാനദണ്ഡങ്ങൾ ഓക്സിജന്റെ അളവ് അലിഞ്ഞുചേർന്നത് k la ഒരു അളവെടുക്കൽ രീതി ചലനാത്മക പ്രതികരണ രീതി ഉൾപ്പെടെ Kla കണ്ടുപിടിക്കുന്നതിലുള്ള ഒരു മികച്ച അറിവ് നൽകുന്ന ഒരു പ്രശ്നവും നാം പരിഹരിച്ചു തുടർന്ന് സ്കെയിൽ അപ്പ് സ്കെയിൽ ഡൌൺ എന്നിവയുടെ ചില വശങ്ങൾ പരിശോധിച്ചു ജ്യാമിതീയ മാനദണ്ഡങ്ങളുടെ തുല്യതയും സ്കെയിൽ അപ്പ് സമയത്ത് പ്രവർത്തന മാനദണ്ഡങ്ങളുടെ തുല്യതയും പരിപാലിക്കേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ മാത്രമേ നമുക്ക് കുറഞ്ഞ അളവിൽ നമുക്ക് ലഭിച്ച ഏത് ഫലവും ഉയർന്ന തോതിൽ ബാധകമാകുമെ ന്ന്പ്രതീക്ഷിക്കാനാകൂ സ്കെയിൽ ഡൌൺ പ്രധാനമാണ് കാരണം നിലവിലുള്ള പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ മീഡിയം കോമ്പോസിഷനിലെ മാറ്റങ്ങൾ ഉപയോഗിച്ച പുതിയ അല്ലെങ്കിൽ പരിഷ്കരിച്ച ഉൽപാദന സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് അവസ്ഥകൾ വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് അവസ്ഥകൾ പരിശോധിച്ച് സാധൂകരിക്കൽ കോശ കൾച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള പുതിയ നടപടി ക്രമങ്ങൾ ഉൽപാദന ബയോറിയാക്ടറിൽ നിന്ന് സമയമെടുക്കാതെ വളരെയധികം ചിലവില്ലാതെ പരീക്ഷിക്കാൻ കഴിയും അതിനാൽ സ്കെയിൽ അപ്പ്നേക്കാൾ സ്കെയിൽ ഡൌണിന്റെ ഗുണം അതാണെന്ന് പറയാം ആ വശങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താൽപ്പര്യമുണർത്തുന്ന ധാരാളം വീഡിയോകൾ വെബ്സൈറ്റുകൾ പ്രബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കുറെ വിഷയാനുബന്ധങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകി ഒടുവിൽ ബയോറിയാക്ടറിന്റെ കോശ കാഴ്ചയിലേക്ക് നമ്മൾ നോക്കി കാരണം കോശങ്ങൾ ഉൽപ്പന്നം നിർമ്മിക്കുന്ന യഥാർത്ഥ വ്യവസായ ശാലകളാണ് കോശത്തെ തുടക്കത്തിൽ ഒരു കറുത്ത പെട്ടിയായി കാണാമെന്നും ബയോറിയാക്ഷൻ സ്റ്റോകിയോമെട്രി ഉപയോഗിച്ച് ചില ഉൾക്കാഴ്ചകൾ ലഭിക്കുമെന്നും നമ്മൾ പറഞ്ഞു കോശ സൂചകങ്ങളിലൂടെ ഒരു ജാലകം തുറക്കുക റെഡോക്സ് സ്റ്റേറ്റ് എനർജി സ്റ്റേറ്റ് ഇൻട്രാസെല്ലുലാർ പി നമുക്ക് അവയെ നിയന്ത്രണ വേരിയബിളായും ഉപയോഗിക്കാം തുടങ്ങിയവയാണ് നമ്മൾ കണ്ടത് എന്നിട്ട് നമ്മൾ അകത്തേക്ക് നോക്കി മെറ്റബോളിക് ഫ്ലെക്സ് അനാലിസിസ് എന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ ധാരാളം സമയം ചെലവഴിച്ചു ജൈവത്തെ ഉചിതമായി പരിഷ്ക്കരിക്കാനും യഥാർത്ഥത്തിൽ വിളവിന്റെ മൂന്നിരട്ടി വർദ്ധനവ് നേടാനുമുള്ള നിർദ്ദേശങ്ങൾ ഇത് നൽകുന്നത് എങ്ങനെയെന്ന് നാം കണ്ടു വള്ളിനോയും സ്റ്റെഫനോപോ ലോസും എഴുതിയ പ്രബന്ധമാണിത് ആർഡിഎൻഎ സാങ്കേതികവിദ്യ എങ്ങനെ ഉള്ളിലുള്ളത് മാറ്റാൻ ഉപയോഗിക്കാമെന്ന് ഞാൻ വളരെ ഹ്രസ്വമായി പരാമർശിച്ചു പിന്നെ ഹൈബ്രിഡോമ ടെക്നോളജി പോലുള്ള മുഴുവൻ കോശങ്ങളും മാറ്റുന്ന സാങ്കേതികതകളെക്കുറിച്ച് നാം കണ്ടു അത്കൊണ്ട് നിങ്ങൾക്ക് സഹായകരമായ ഒരു കോഴ്സ് ആണ് ഇതെന്ന് പ്രതീക്ഷിക്കുന്നു കോഴ്സ് സമയത്ത് നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തുവെന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു